സെൽ കൾച്ചർ ലെക്ചർ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ മയോട്യൂബിന്റെ ഫീനോടൈപ്പിനെ കുറിച്ച് പറഞ്ഞാണ് നിർത്തിയത് നമ്മൾ മയോട്യൂബിന്റെ ഫീനോടൈപ്പിനെ കുറിച്ച് പറഞ്ഞു അതിലെ ഒന്നിൽ കൂടുതലുള്ള ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു ഈ ട്യൂബുകളുടെ സങ്കോചിക്കാനുള്ള അന്തർലീനമായ കഴിവിനെ കുറിച്ച് പറഞ്ഞു ചില സമയത്ത് അത് സ്വയമേവ ഉള്ള സങ്കോചമാണ് എന്നാൽ മറ്റു ചിലപ്പോൾ അതിനായി ന്യൂറോണൽ സിഗ്നൽ വേണ്ടിവന്നേക്കും ആ ഭാഗത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം ഫീറ്റൽ റാറ്റിൽ നിന്ന് വളർത്തുന്ന മയോട്യൂബുകൾ സ്വയമേവ സങ്കോചിക്കുന്നതായി സാധാരണ കണ്ടുവരുന്നു ഒരുപേശി സങ്കോചിക്കുമ്പോൾ അവിടെ രണ്ടു കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആക്റ്റിൻ മയോസിൻ ഫിലമെൻറ് കളുടെ ഒന്നിനുമുകളിൽ മറ്റൊന്നായുള്ള സ്ലൈഡിങ് ഫിലമെൻറ് ചലനം വിപരീത ദിശയിലുള്ള ഈ ചലനം നടക്കുമ്പോഴാണ് സങ്കോചം സംഭവിക്കുന്നത് നിങ്ങൾക്ക് മറ്റ് അനിമൽ ഫിസിയോളജി ടെക്സ്റ്റ് പുസ്തകങ്ങളിലോ എൻറെ തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ലെക്ചർ സീരീസിലോ ഇതിനെക്കുറിച്ച് റഫർ ചെയ്താൽ വ്യക്തമായ ധാരണ ലഭിക്കും സ്ലൈഡിങ് ഫിലമെൻറ് ചലനം നടക്കാനായി കാൽസ്യം സ്പൈക്ക് ആവശ്യമായുണ്ട് ഞാൻ ഇവിടെ നിന്നു തുടങ്ങാം അപ്പോൾ ഇത് ഏഴാമത്തെ ആഴ്ചയിലെ നാലാമത്തെ ലക്ച്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കുത്തുകൾ കാൽസ്യം സ്പൈക്കിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ കാൽസ്യം സ്പൈക്കിങ് ഉണ്ടാകും ഇത് വളരെ ക്ഷണികമായ ഒരു സ്പൈക്ക് ആണ് ഇത് ഇത്തരത്തിലാണ് രൂപപ്പെടുന്നത് ഉടനെതന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു വളരെ വളരെ ക്ഷണികമായ സ്പൈക്ക് എന്നാൽ ആരാണ് ഈ ക്ഷണികമായ സ്പൈക്കിനെ നിയന്ത്രിക്കുന്നത് ഇത് ഒരു നിർണായക ചോദ്യമാണ് മയോ ട്യൂബിലുള്ള ചില ഓർഗനെൽ ആണ് ഈ ക്ഷണികമായ സ്പൈക്കിനെ നിയന്ത്രിക്കുന്നത് കോശങ്ങളെ വളർത്തുമ്പോൾ ഉള്ള സങ്കീർണത വർദ്ധിക്കുകയാണ് മയോ ട്യൂബിലുള്ള സാർകോപ്ലാസ്മിക് റെറ്റികുലം എന്ന ഓർഗനെൽ ആണ് ഈ ക്ഷണികമായ സ്പൈക്കിനെ നിയന്ത്രിക്കുന്നത് ഒരു സ്പോഞ്ച് പോലുള്ള അവയവമാണ് സാർകോപ്ലാസ്മിക് റെറ്റികുലം ഇതിനെ ഞെക്കുകയാണെങ്കിൽ കാൽസ്യം പുറത്തുവരും അതുപോലെ കാൽസ്യത്തെ തിരിച്ചു വലിച്ചെടുക്കാനും ഇതിനു കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനെൽ ഇവിടെ ഉണ്ടെങ്കിൽ അത് കാൽസ്യത്തിനെ പുറംതള്ളുകയും എന്നാൽ ഉടനെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും ഇത്തരത്തിൽ കാൽസ്യം പുറന്തള്ളുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്നതിന് ഇടയിലുള്ള സമയമാണ് കാൽസ്യം സ്പൈക്കിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ സാർകോപ്ലാസ്മിക് റെറ്റികുലം സൃഷ്ടിക്കുന്ന ഈ കാൽസ്യം സ്പൈക്കും നിങ്ങൾ സെൽ കൾച്ചർ ഡിഷിൽ നിലനിർത്തേണ്ടതുണ്ട് അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയത് ശരിയായ തരത്തിലുള്ള മയോ ട്യൂബ് അല്ല പൂർണമായ ഫീനോടൈപ്പിക്ക് സവിശേഷതകൾ ഇവിടെ കാണാൻ കഴിഞ്ഞെന്നുവരില്ല സാർകോപ്ലാസ്മിക് റെറ്റികുലമാണ് അപ്പോൾ കാൽസ്യം വിടുവിക്കുന്നവർ എന്നാൽ അതിനെ ഉത്തേജിപ്പിക്കുന്നത് രണ്ട് തരം റിസെപ്റ്ററുകൾ ആണ് ഇപ്പോൾ ഇതാണ് സാർകോപ്ലാസ്മിക് റെറ്റികുലം എന്ന് കരുതുക അപ്പോൾ ഇവയെ ഉത്തേജിപ്പിക്കുന്നത് അവയുടെ ഉപരിതലത്തിലുള്ള രണ്ട് പ്രത്യേക സെൻസറുകളാണ് ഞാൻ ഇതിന് രണ്ടു വ്യത്യസ്ത നിറങ്ങൾ നൽകുകയാണ് ഇവിടെ നോക്കൂ ഒന്നിന് ചുവപ്പുനിറവും മറ്റേതിന് പച്ചനിറവുമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഒന്നിനെ റയാനോഡിൻ റിസപ്റ്റർ എന്നും അടുത്തത് ഡി എച്ച്പിആർ റിസപ്റ്റർ എന്നും അറിയപ്പെടുന്നു ഇവയാണ് കാൽസ്യം ചാനലുകൾ ഡി എന്നാൽ ഡൈ എച് എന്നാൽ ഹൈഡ്രോ പി എന്നാൽ പിരിഡിൻ ആർ എന്നാൽ റിസപ്റ്റർ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ സാർകോപ്ലാസ്മിക് റെറ്റികുലത്തിൽ രണ്ട് വ്യത്യസ്തങ്ങളായ സെൻസറുകൾ ഉണ്ട് റയാനോഡിൻ റിസപ്റ്ററിനെ ചുരുക്കി RYR എന്നുവിളിക്കാം ആർ വൈ എന്നാൽ റയാനോഡിൻ രണ്ടാമത്തെ ആർ റിസപ്റ്റർ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു പിന്നെ ഡി എച്ച്പിആർ ഡൈഹൈഡ്രോപിരിഡിൻ റിസപ്റ്ററും ഉണ്ട് അപ്പോൾ ഈ രണ്ട് റിസപ്റ്ററുകളും അല്ലെങ്കിൽ കാൽസ്യം സെൻസറുകളും കാൽസ്യത്തെ പുറന്തള്ളാനും തിരിച്ചെടുക്കാനും സഹായിക്കുന്നു അപ്പോൾ ഇത്തരത്തിലാണ് കാൽസ്യം ഡൈനാമിക്സ് പ്രവർത്തിക്കുന്നത് ഒരു ഇൻവിട്രോ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുമ്പോൾ എൻറെ പക്കലുള്ള ഡിഷിൽ മായോ ട്യൂബ്സ് ഇത്തരത്തിൽ വളരുന്നതായി കാണാം അപ്പോൾ ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം ഇവയുടെ ഫീനോടൈപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഉറപ്പായും മായോ ട്യൂബ്സ് ഫീനോടൈപ്പ് നിലനിർത്തുന്നുണ്ടാകും അടുത്ത പടിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇവയുടെ പ്രവർത്തന ക്ഷമതയാണ് ഉത്തേജനത്തിന്റെ സഹായത്തോടെയോ അല്ലാതെയോ ഇവ സങ്കോചിക്കുന്നുണ്ടോ അതാണ് രണ്ടാമത്തെ പടി ഫീനോടൈപ്പ് എന്നാൽ രൂപം മാത്രമല്ല മയോസിൻ ഹെവി ചെയിൻ പ്രോട്ടീൻ പ്രകടമാവുക കൂടി വേണം ഈ ചിത്രത്തിൽ ഞാൻ കാണിച്ചിരുന്നത് ഓർത്തെടുക്കുക ഉദാഹരണത്തിന് ഈ മയോസിനുകളെ നീലനിറത്തിൽ ആണ് ഞാൻ കാണിച്ചിരുന്നത് അവ മയോ ട്യൂബുകൾ ആകുമ്പോൾ മയോസിനുകൾ അവയുടെ രൂപം മാറുന്നു അവിടെ ഒരു സബ്ടൈപ്പ് പ്രകടമാകുന്നു അപ്പോൾ ഏക മയോസിൻ കോശങ്ങളെക്കാൾ കൂടുതൽ പക്വമായ മയോസിൻ ട്യൂബുകളെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക ഗർഭാവസ്ഥയിലുള്ള മയോസിൻ ഹെവി ചെയിനിൽ നിന്നും നവജാതശിശുവിലുള്ള മയോസിൻ ഹെവി ചെയിനിലേക്കുള്ള രൂപാന്തരം എന്ന് ഇതിനെ പറയാം ഒടുവിൽ ഇവ മുതിർന്ന മയോസിൻ ഹെവി ചെയിൻ ആയി മാറുന്നു എം എച്ച് സി എന്നാൽ മയോസിൻ ഹെവി ചെയിനിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ രൂപാന്തരം സംഭവിക്കുന്നുണ്ട് ഇതു വരെ എത്താൻ സാധിച്ചാലേ നിങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ ആവുകയുള്ളൂ ഗർഭാവസ്ഥയിലുള്ള മയോസിൻ ഹെവി ചെയിനിൽ നിന്നും നവജാതശിശുവിലുള്ള മയോസിൻ ഹെവി ചെയിനിലേക്കുള്ള രൂപാന്തരം അവിടെ നടന്നിരിക്കണം അത് ഈ സെൽ കൾച്ചർ ഡിഷിനകത്തു നടക്കണം അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ഫീനോടൈപ്പ് വേണ്ടവിധത്തിൽ പ്രകടമായിട്ടില്ലെന്ന് അർത്ഥം മനസ്സിൽ വെക്കേണ്ട കാര്യം ഇതാണ് എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് ഒന്നും നടക്കണമെന്നില്ല രണ്ടാമത്തേത് മയോസിൻ ഹെവി ചെയിൻ പ്രകടമാക്കൽ ആണ് അത് ഒരു ഫിസിക്കൽ പരാമീറ്റർ ആണ് അതായത് നിങ്ങൾക്ക് സങ്കോചമാണ് കാണാനാവുക മൂന്നാമത്തേത് നിങ്ങൾക്ക് സാർകോപ്ലാസ്മിക് റെറ്റികുലം ഇവയിൽ കണ്ടെത്താനാകണം എന്നുള്ളതാണ് അതു തെളിയിക്കാൻ ഉള്ള ഏക വഴി റയാനോഡിൻ റിസപ്റ്ററും ഡി എച്ച്പിആർ റിസപ്റ്ററും ആണ് പേശികൾ ഇവ രണ്ടും പ്രകടമാക്കുക എന്നത് ഈ യാത്രയിൽ വളരെ നിർണായകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വിശിഷ്ടങ്ങളായ ഈ രണ്ട് മാർക്കറുകൾഅതായത് ഡി എച്ച്പിആർ ഉം ആർ വൈ ആർ ഉം പരസ്പരം വളരെ അടുത്ത സാമീപ്യത്തിൽ ആയിരിക്കണം വളരെ വളരെ അടുത്ത സാമീപ്യത്തിൽ മിക്കവാറും അവർ ഒരേ എന്റിറ്റിയാണെന്ന് തോന്നും മിക്കവാറും അവ ഇതുപോലെയാണ് ഇത് അകന്ന് ഇരിക്കരുത് ഇല്ലെങ്കിൽ കാൽസ്യം സ്പൈക്കിങ് പൂർണ്ണമായും നടക്കില്ല അതിനാൽ നിങ്ങൾ എങ്ങനെ അത്തരത്തിൽ ചെയ്യും ഡി എച്ച് പി ആറിനെതിരെ നിർദ്ദിഷ്ട ടൈപ്പ് ആന്റിബോഡികളും ആർ വൈ ആറിനെതിരായ നിർദ്ദിഷ്ട ആന്റിബോഡിയും ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ അവയുടെ നിർദ്ദിഷ്ട ആന്റിബോഡികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയെ പ്രത്യേകം ലേബൽ ചെയ്യാൻ കഴിയും അതിനാൽ എല്ലിൻറെ പേശി വളർത്തിയെടുക്കുമ്പോൾ അതായത് ഒരു പക്വമായ ടിഷ്യു ഇൻ വിവോ യിൽ വളർത്തിയെടുക്കുമ്പോൾ ഉണ്ടാകേണ്ട എല്ലാ സവിശേഷതകളും നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പോടെ നിശ്ചയദാർഢ്യത്തോടെ പറയാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ എല്ലാ മാനദണ്ഡങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഇവയൊന്നും അറിയില്ലെങ്കിൽ തിരികെ പോയി അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള ആയുധം ഫീറ്റൽ മയോസിൻ ഹെവി ചെയിൻ ആയി ബന്ധിക്കുന്ന ആൻറിബോഡികളാണ് പ്രാരംഭഘട്ടത്തിൽ ഫീറ്റൽ മയോസിൻ ഹെവി ചെയിൻ പ്രകടമാകുന്നതായി നാം കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഫീറ്റൽ മയോസിൻ ഹെവി ചെയിൻ ആയി ബന്ധിക്കുന്ന ആൻറിബോഡി ആണ് ഡി എച്ച്പിആർ റയാനോഡിൻ റിസപ്റ്റർ എന്നിവയ്ക്ക് എതിരായുള്ള ആൻറിബോഡികളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമല്ല കോശങ്ങളുടെ സങ്കോചവും ഇലക്ട്രോഫിസിയോളജി ടെക്നിക്കുകൾ ഉപയോഗിച്ച് പേശി കോശങ്ങൾ സൃഷ്ടിക്കുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ ഉം നിങ്ങൾക്ക് കാണാൻ സാധിക്കണം മയോ ട്യൂബുകൾ സൃഷ്ടിക്കുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ വിജയിച്ചോ ഇല്ലയോ എന്ന് അറിയാനായി അടുത്തതായി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം കോൺ ഫോക്കൽ മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് കാൽസ്യം തരംഗമോ സ്പൈക്കോ ദൃശ്യവൽക്കരിക്കുക എന്നതാണ് തരംഗം എന്നത് തെറ്റായ പ്രയോഗമാണ് ഞാൻ ഇവിടെ കാൽസ്യം സ്പൈക്ക് എന്നാണ് പറയേണ്ടത് കാരണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്പൈക്ക് കാണാനാകും എന്നാൽ ചില സമയത്ത് നിങ്ങൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഡിസ്റ്റർബൻസുകൾ ആയിരിക്കും അതിനാൽ കാൽസ്യം അളക്കേണ്ടി വരുമ്പോൾ കാൽസ്യവും ആയി ബന്ധിക്കുന്ന നിർദ്ദിഷ്ഠ ഡൈസ് നിങ്ങൾക്ക് വേണ്ടി വരും ഇത്തരത്തിൽ ആണ് എൻറെ ഇൻവിട്രോ സിസ്റ്റം പ്രവർത്തിക്കുന്നത് എങ്കിൽ ആവശ്യമായ ഈ വസ്തുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് അതിനാൽ ഇതിന് വളരെയധികം ആസൂത്രണവും കൂടാതെ വളരെയധികം അടിസ്ഥാന പ്രവർത്തനങ്ങളും ആവശ്യമാണ് ഞാൻ ഇതിൽ വിജയിച്ചോ അതോ ഞാൻ പരാജയപ്പെട്ടോ എന്നതിനേക്കാൾ പ്രധാനം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ ശരിയായി ചെയ്തുവോ എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു മാതൃകയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങൾ എന്തെല്ലാമാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം മാനദണ്ഡങ്ങൾ ആണ് പാലിക്കേണ്ടത് എന്നിവയെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ അസ്ഥിപേശികൾക്കുള്ള ഉള്ള ഡിഫൈൻഡ് സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് ഡിഫൈൻഡ് മീഡിയ ആണ് അതിലും മുന്നേ അറിഞ്ഞിരിക്കേണ്ടത് ഏത് പ്രായവിഭാഗത്തിൽ നിന്ന് ആണ് ടിഷ്യു ശേഖരിക്കുന്നത് എന്നതാണ് വ്യത്യസ്ത പ്രായ വിഭാഗങ്ങളിൽ നിന്ന് ടിഷ്യു ശേഖരിക്കുന്നതിലുള്ള ഗുണങ്ങളെ കുറിച്ചും ദോഷങ്ങളെ കുറിച്ചും ഞാൻ മുന്നേ പറഞ്ഞുകഴിഞ്ഞു നവജാത വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ജനനശേഷം ഉള്ളവയിൽ നിന്നോ ടിഷ്യു സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ഫൈബ്രോബ്ലാസ്റ് ഉണ്ടായിരിക്കും അതിനാൽ നിങ്ങൾ ഈ ടിഷ്യു പുറത്തെടുക്കുമ്പോൾ അവ നിങ്ങളുടെ പേശി കോശങ്ങളെ മറികടക്കും അതിനാൽ നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് ഒരു ടിഷ്യു എടുക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ഫൈബ്രോബ്ലാസ്റ്റുകൾ ഉണ്ടായിരിക്കും ഈ ഫൈബ്രോബ്ലാസ്റ്റുകൾ വളരെ വേഗത്തിൽ വിഭജിക്കും ഇത്തരത്തിൽ വളരെ വേഗത്തിൽ വിഭജിക്കുകയാണെങ്കിൽ അവ നിങ്ങളുടെ അസ്ഥിപേശി കോശങ്ങളെ മറികടക്കും അതിനാൽ ഈ ഫൈബ്രോബ്ലാസ്റ്റുകളെ വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതികവിദ്യ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ഇത്തരത്തിൽ ഫൈബ്രോബ്ലാസ്റ്റുകളെ വേർതിരിച്ച് മാറ്റിയാലും അതിൽ മറ്റു തരത്തിലുള്ള കോശങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിൽ നമുക്ക് ഒന്നും ചെയ്യാനാകില്ല ഫൈബ്രോബ്ലാസ്റ്റുകളെ പേശി കോശങ്ങളിൽ നിന്ന് വേർപെടുത്തിയെടുക്കാനുള്ള ഒരു വഴി കോശങ്ങളുടെ സിംഗിൾ സെൽ സസ്പെൻഷൻ തയ്യാറാക്കുക എന്നതാണ് ചില കോശങ്ങൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ താഴെ അടിയുന്നതായി കാണാം ഫൈബ്രോബ്ലാസ്റ്റുകൾ മിക്കവാറും വളരെ എളുപ്പത്തിൽ താഴെ അടിയുന്നു ഫൈബ്രോബ്ലാസ്റ്റുകൾ എളുപ്പത്തിൽ താഴെ അടിയും എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ മുകളിലുള്ള സസ്പെൻഷൻ വേർതിരിച്ചെടുക്കാവുന്നതാണ് അതിൽ ധാരാളം പേശി കോശങ്ങൾ ഉണ്ടായിരിക്കും ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചില തന്ത്രങ്ങൾ ലഭിക്കും പ്രായമനുസരിച്ച് ഫൈബ്രോ ബ്ലാസ്റ് കോശങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കും അപ്പോൾ ഇത്തരത്തിൽ E 18 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫൈബ്രോ ബ്ലാസ്റ് കോശങ്ങളുടെ സാന്നിധ്യം കുറവായിരിക്കും എന്നാൽ അതിന് അതിൻറെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ദോഷം എന്താണെന്നുവെച്ചാൽ നിങ്ങളുടെ പേശി കോശങ്ങളുടെ വളർച്ച സാവധാനത്തിൽ ആയിരിക്കും കാരണം അസ്ഥിപേശികൾക്ക് ആവശ്യമായ നിരവധി സഹായ ഘടകങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിവുള്ളവയാണ് ഫൈബ്രോബ്ലാസ്റ്റുകൾ എന്നാൽ ഈ അവശ്യഘടകങ്ങൾ സെൽ കൾച്ചർ മീഡിയയിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയുകയാണെങ്കിൽ ശരിയായ രീതിയിൽ കോശങ്ങളുടെ വളർച്ച ലഭിക്കുകയും ചെയ്യും അടിസ്ഥാനപരമായ കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് വീണ്ടും വ്യക്തമാകുന്നത് അതിനാൽ നിങ്ങൾ എടുക്കുന്ന പേശിയുടെ പ്രായമനുസരിച്ച് ഫൈബ്രോബ്ലാസ്റ്റിന്റെ സാന്നിധ്യവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ശരിയായ പ്രായത്തിലുള്ള ടിഷ്യു എടുത്തു കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഡിഫൈൻഡ് മീഡിയകൾ ആണ് എന്തുകൊണ്ടാണ് മീഡിയകൾ എന്നു പറഞ്ഞത് കാരണം ഒരു ഘട്ടത്തിൽ വിഭജനമാണ് നടക്കുന്നത് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ സൂചിപ്പിച്ചിരുന്നു 2 ഘട്ടങ്ങളുണ്ടെന്ന് ആദ്യത്തേത് വിഭജന ഘട്ടം രണ്ടാമത്തേത് വിഭജനവും ഡിഫറെൻസിയേഷനും എല്ലാവിധ മാനദണ്ഡങ്ങളും ശ്രദ്ധയിൽ വയ്ക്കേണ്ടതുണ്ട് മയോസിൻ ഹെവി ചെയിനിന്റെ രൂപാന്തരപ്രകടനം ഫീറ്റൽ മയോസിൻ ഹെവി ചെയിൻ നവജാത മയോസിൻ ഹെവി ചെയിൻ തുടങ്ങിയവ തുടർന്നും മുന്നിലേക്ക് പോകുമ്പോൾ മുതിർന്ന മയോസിൻ ഹെവി ചെയിൻ സാർകോപ്ലാസ്മിക് റെറ്റികുലം റയാനോഡിൻ റിസപ്റ്റർ ഡിഎച്ച്പിആർ റിസപ്റ്റർ തുടങ്ങിയവയുടെ സാന്നിധ്യം ആക്ഷൻ പൊട്ടൻഷ്യൽ മയോ ട്യൂബുകളുടെ സങ്കോചം തുടർന്ന് കാൽസ്യം സ്പൈക്കുകളുടെ നിർണയം തുടങ്ങി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ മനസ്സിലായിക്കാണുമല്ലോ സെൽ കൾച്ചർ മോഡലുകൾ ഉണ്ടാക്കിയെടുക്കുക എത്ര കാഠിന്യമുള്ള പ്രവർത്തിയാണെന്ന് ചില കോശങ്ങളെ നിക്ഷേപിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യലല്ല സെൽ കൾച്ചർ നേരെ മറിച്ച് വളരെ ചിട്ടയായ രീതികളിലൂടെ യഥാർത്ഥശരീരത്തിലെ ജീവകോശങ്ങളോട് ഏറ്റവും സാദൃശ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കിയെടുക്കുകലാണ് സെൽ കൾച്ചർ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദമായി നോക്കാം